നമ്മൾ ഇതുവരെ കണ്ടത് നിമിഷങ്ങളുടെ രീതിയുടെ ഗണിതശാസ്ത്ര രൂപീകരണത്തിൽ നിന്ന് ആരംഭിച്ചപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഉദാഹരണം ഉപരിതല ഇന്റഗ്രൽ ഫോർമുലേഷനാണ് രണ്ടാമത്തെ ഉദാഹരണം വോളിയം ഇന്റഗ്രൽ എന്ന് വിളിക്കപ്പെടുന്ന അനുബന്ധ പൂരക രീതിയായിരിക്കും അതിനാൽ 1 എപ്പോൾ ആവശ്യമാണെന്നും മറ്റൊന്ന് എപ്പോൾ ആവശ്യമാണെന്നും നമ്മൾ വിശദീകരിക്കും അതിനാൽ നമുക്ക് ഇതിനകം അറിയാവുന്ന കാര്യങ്ങൾ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എന്താണ് നമ്മൾ ഇതിനകം പരിഹരിച്ചിരിക്കുന്നത് നമ്മുടെ പക്കലുള്ളത് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ഡയഗ്രം ഒരിക്കൽ കൂടി ശരിയാക്കാൻ പോകുന്നു ഇത് നമ്മുടെ V1 ആയിരുന്നു ഇതാണ് നമ്മുടെ V2 ഇവിടെ നിലവിലുള്ള ചില ഉറവിടങ്ങൾ J ആണ് അതാണ് നമ്മുടെ പ്രശ്നം ഞാൻ ഇതിനെ അനന്തത എന്ന് വിളിക്കുന്നു ഇത് ഉറവിടം ആണ് അതിനാൽ ഈ 2 മേഖലകൾക്കായി നമ്മൾ ഏത് തരത്തിലുള്ള സമവാക്യമാണ് എഴുതിയത് അവിടെ തരംഗ സമവാക്യം ശരിയാണ് അതിനാൽ ഞാൻ എല്ലാം ലളിതമാക്കിയതിന് ശേഷം എനിക്ക് രണ്ട് പ്രദേശങ്ങളിലും നിലവിലുള്ള ഉറവിടം എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ ഒരു നിലവിലെ ഉറവിടം J ഉണ്ടായിരുന്നു ഈ സമവാക്യങ്ങളിൽ നിലവിലെ ഉറവിടം എവിടെയാണ് ഒരു രൂപം കണ്ടെത്തിയത് ഏത് പദത്തിലാണ് നിലവിലെ ഉറവിടം അടങ്ങിയിരിക്കുന്നത് അതിനാൽ f jωμJ ആണ് അതിനാൽ നമ്മൾ അത് f ലേക്ക് ആഗിരണം ചെയ്തു ഈ സമവാക്യം നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിനെ വിളിക്കും ഇത് ഒരു ഹെൽമോൾട്ട്സ് സമവാക്യം പോലെയാണ് എന്നിട്ട് നമ്മൾ ഇത് എങ്ങനെ പരിഹരിക്കുമെന്ന് പറഞ്ഞു അതിനാൽ ഇത് പരിഹരിക്കാൻ നമ്മൾ ഒരു പുതിയ ഫംഗ്ഷൻ കണ്ടുപിടിച്ചതായി നമ്മൾ പറഞ്ഞു അതിനെ നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷൻ Green's function എന്ന് വിളിച്ചു അതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ഈ ഗ്രീൻസ് ഫംഗ്ഷൻ Green's function കണ്ടെത്താൻ കഴിയുമെങ്കിൽ എനിക്ക് ഈ പ്രശ്നം ശരിയായി പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു അതാണ് പ്രചോദന പ്രതികരണ ആശയം എന്നാൽ ഈ രണ്ട് സമവാക്യങ്ങളിലും ആവശ്യമായ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്റെ ഇടതുവശത്തുള്ള ഓപ്പറേറ്റർ രണ്ട് സമവാക്യങ്ങൾക്കും ഒന്നാണ് ആ ഓപ്പറേറ്റർ അത് ∇2 k2 പോലെയാണ് ഓപ്പറേറ്റർ ഒരേ ആയിരിക്കുമ്പോൾ എനിക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ Green's function ഉപയോഗിക്കാം ഇപ്പോൾ ഈ ഗ്രീൻസ് ഫംഗ്ഷൻ Green's function പരിഹരിക്കാൻ നമ്മൾ പോയപ്പോൾ നമ്മൾ ഹ്രസ്വമായ ഘട്ടങ്ങൾ എന്താണ് ചെയ്തത് നമ്മൾ അതിനെ ആദ്യം 2D പോളാർ കോർഡിനേറ്റുകളിലേക്ക് പരിവർത്തനം ചെയ്തു ഞാൻ പോളാർ കോർഡിനേറ്റുകളിൽ ലാപ്ലേസ് എഴുതി കുറച്ച് ബീജഗണിത കൃത്രിമത്വത്തിന് ശേഷം ഞാൻ എന്താണ് അവസാനിപ്പിച്ചത് ഞാൻ ഡിഫറൻഷ്യൽ സമവാക്യം ശരിയാക്കി അതിനാൽ ആ ഡിഫറൻഷ്യൽ സമവാക്യം അറിയപ്പെടുന്ന ഒരു ഡിഫറൻഷ്യൽ സമവാക്യം പോലെ കാണപ്പെട്ടു ഏതാണ് ബെസ്സലിന്റെ Bessel's ഡിഫറൻഷ്യൽ സമവാക്യം ശരിയാണ് അതിനാൽ ഞാൻ ഇത് പരിഹരിക്കാൻ പോയപ്പോൾ എനിക്ക് x2y′′ xy′ x2 − α2y 0 പോലെ തോന്നിക്കുന്ന ഒന്ന് ലഭിച്ചു അതിനെയാണ് ഞാൻ ബെസ്സലിന്റെ Bessel's ഡിഫറൻഷ്യൽ സമവാക്യത്തെ എന്ന് വിളിച്ചത് ഇതുവരെ വളരെ മികച്ചതാണ് നമ്മുടെ കാര്യത്തിൽ α എന്തായിരുന്നു α 0 അതുകൊണ്ടാണ് നമ്മുടെ പരിഹാരങ്ങൾ H0 H0 ആയതിനാൽ ഇതുവരെ ഇതൊരു പുനരവലോകനം മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ള സമവാക്യത്തെ നമുക്ക് സമവാക്യം 3 എന്നും സമവാക്യം 2 എന്നും വിളിക്കാം സമവാക്യം 3 ന് ഇവിടെ k പദമൊന്നും ഇല്ല എന്നത് ശരിയാണ് അവിടെ x y α എന്നിവ മാത്രമേ ഉള്ളൂ അത് 0 ആണ് എന്നാൽ നമ്മുടെ യഥാർത്ഥ സമവാക്യം 2 ന് ഒരു k ഉണ്ടായിരുന്നു അതിനാൽ നമുക്ക് ഒരു കൃത്രിമം കൂടി ചെയ്യേണ്ടിവന്നു അതാണ് വിദ്യാർത്ഥി x kr അതിനാൽ x kr x എന്നത് അതിൽ ആഗിരണം ചെയ്യപ്പെടുന്നു എന്നതിന് പകരമായി എനിക്ക് ഉണ്ടായിരുന്നു ഇവിടെ സൂചിപ്പിക്കുന്നത് k എന്നത് സ്ഥിരമായ ഒരു അവകാശമാണ് അതുകൊണ്ടാണ് എനിക്ക് പകരം വയ്ക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഇത് വേരിയബിളുകളുടെ വളരെ ലളിതമായ ഒരു മാറ്റമാണ് അതിനാൽ ഇവിടെ നമ്മൾ വളരെ വ്യക്തമായി പറയാതെ ചെയ്തത് k എന്നത് സ്ഥിരമായ ഒരു അവകാശമാണ് എന്നതാണ് അതിനാൽ k എന്നതിന്റെ ഭൌതിക അർത്ഥമെന്താണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഇവിടെ k യുടെ കുറച്ച് മൂല്യമുണ്ട് നമ്മൾ അതിനെ k1 എന്നും k യുടെ കുറച്ച് മൂല്യം ഇവിടെ ഞാൻ k2 എന്നും വിളിച്ചു ഈ സമീപനം പ്രവർത്തിക്കുന്നതിന് k യെ കുറിച്ച് എന്താണ് സത്യമായിരിക്കണം ഇതിൽ നിന്ന് ബെസലിന്റെ Bessel's പരിഹാരം ലഭിക്കണമെങ്കിൽ അത് സ്ഥിരമായ ഒരു അവകാശമായിരിക്കണമെന്ന് നമ്മൾ കണ്ടു അതിനാൽ k1 നമുക്ക് ഒരു വാക്വം k2 എന്ന് പറയാം എന്നാൽ അതേ പരിഹാര തന്ത്രം പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം k സ്ഥിരതയുള്ളതായിരിക്കണം അതിനാൽ ഈ മേഖലയിൽ നമ്മൾ ഇതുവരെ ചെയ്തതിൽ k2 സ്ഥിരമാണ് അപ്പോൾ അത് ഏത് തരത്തിലുള്ള വസ്തുവാണ് ഏകതാനമായ വസ്തു അതിനാൽ ഇപ്പോൾ യഥാർത്ഥ ജീവിതത്തിലെ വസ്തുക്കൾ എല്ലായ്പ്പോഴും ഏകതാനമായിരിക്കും ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ചില വിമാനങ്ങളുടെ RCS കണക്കാക്കുന്നത് ശരിയല്ല ചില വിമാനങ്ങളാണ് കുറച്ച് കോക്ക്പിറ്റ് ഇവിടെ ഉണ്ട് അതിനാൽ നിങ്ങൾക്കറിയാവുന്ന ചില ഗ്ലാസ് ഇവിടെ ഉണ്ടാകും ഇവിടെ ചില ലോഹങ്ങൾ വ്യത്യസ്ത ഘടകങ്ങളുണ്ട് അതിനാൽ ഇതെല്ലാം യാഥാർത്ഥ്യമായ വസ്തുക്കളാണ് വൈവിധ്യമാർന്നതായിരിക്കും അതിനാൽ ഈ ഉപരിതല അവിഭാജ്യ സമീപനം ഞാൻ ഇതുവരെ കണ്ടെത്തിയ ഈ സമീപനം എനിക്ക് പ്രയോഗിക്കാനാകുമോ ശരി ഉത്തരം ഇല്ല എന്നാണ് എനിക്ക് അതിനെ ചെറിയ ഉപമേഖലകളായി വിഭജിക്കാൻ കഴിയുമെങ്കിൽ അവ ഓരോന്നും സ്ഥിരമായ k ആണ് അതിനാൽ എനിക്ക് വളരെക്കാലം പറയാൻ കഴിയും എനിക്ക് എല്ലാ ലോഹ ഭാഗങ്ങളും എടുത്ത് ഇത് പറയാം അതിനാൽ വോളിയം 1 2 എന്നിവയ്ക്ക് പകരം എനിക്ക് 1 2 3 4 വരെ വോളിയം ഉണ്ടായിരിക്കാം അപ്പോൾ എനിക്ക് ഉണ്ടാകും അതിനാൽ വ്യത്യസ്തമായ പല ഉപരിതല ഇന്റഗ്രലുകൾ ഓരോന്നിനും ഞാൻ അതിർത്തി വ്യവസ്ഥകൾ പരിഹരിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യേണ്ടത് ഒരു സമീപനമാണ് പക്ഷേ അത് തകരും ഉദാഹരണത്തിന് എന്റെ മെറ്റീരിയലിന് റിഫ്രാക്റ്റീവ് ഇൻഡക്സ് പെർമിറ്റിവിറ്റിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും റിഫ്രാക്റ്റീവിൽ തുടർച്ചയായ ചില വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ അത് തകരും ശരിയായി വിളിക്കാൻ അതിനാൽ ഒരു ഒബ്ജക്റ്റ് യഥാർത്ഥത്തിൽ വൈവിധ്യമാർന്നതാണെങ്കിൽ ഈ സമീപനം പരാജയപ്പെടുമെന്ന് നമുക്ക് കാണാൻ കഴിയും അവിടെയാണ് ഈ മറ്റൊരു സമീപനം വരുന്നത് അത് വോളിയം അവിഭാജ്യമാണ് അതിനാൽ ഈ വാക്ക് സൂചിപ്പിക്കുന്നതുപോലെ ഉപരിതല ഇന്റഗ്രൽ ഉപരിതല വോളിയത്തിന് ചുറ്റുമുള്ള സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്നു ഇന്റഗ്രൽ വോളിയത്തിലേക്ക് പോയി അത് പരിഹരിക്കുന്നു അതിനാൽ ഗുണങ്ങൾ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള വസ്തുക്കളെ മാതൃകയാക്കാൻ കഴിയും അവ വൈജാത്യമുള്ളവയാണ് കൂടാതെ പോരായ്മയോ കുറവോ ഉള്ളതായി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് വിദ്യാർത്ഥി കൂടുതൽ കണക്കുകൂട്ടൽ കൂടുതൽ കണക്കുകൂട്ടലുകൾ കാരണം ഗ്രീൻസ് ഫംഗ്ഷനുകളെക്കുറിച്ച് Green's function നമ്മൾ എപ്പോഴാണ് സംസാരിക്കുക ഞാൻ ഒരു ഉപരിതല വിസ്തീർണ്ണം എടുക്കുമ്പോൾ കണക്കുകൂട്ടലിന്റെ കണക്കുകൂട്ടൽ സംഖ്യയ്ക്ക് കണക്കാക്കാൻ കൂടുതൽ മൂലകങ്ങൾ ഉണ്ടായിരിക്കും അതിനുശേഷം അതിന് ചുറ്റുമുള്ള വരി മാത്രം അതിനാൽ കണക്കുകൂട്ടൽ വർദ്ധിക്കാൻ പോകുന്നു പക്ഷേ ഇത് പരിഹരിക്കുന്നതിന് ഞാൻ നൽകേണ്ട വിലയാണിത് അപ്പോൾ ഗ്രീൻസ് ഫംഗ്ഷനുകളെക്കുറിച്ചുള്ള ചോദ്യം എന്താണ് നമുക്ക് ഒരു ഗ്രീൻ ഫംഗ്ഷൻ Green's function ഉണ്ട് ഉപരിതല ഇന്റഗ്രൽ ഫോർമുലേഷനായി ഇവിടെ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ പരിഹരിക്കുന്ന 2D പ്രശ്നമാണിതെന്ന് അനുമാനിക്കുന്നത് തുടരാൻ പോകുകയാണ് അതിനാൽ നമ്മൾ 3D യിലേക്ക് പോകുന്നില്ല അതിനാൽ നമ്മുടെ പ്രശ്നമായ ഒരു വൈവിധ്യമാർന്ന മാധ്യമത്തിനായുള്ള ഗ്രീൻ ഫംഗ്ഷൻ Green's function അടച്ച രൂപത്തിൽ നമുക്ക് അറിയില്ല എന്നതാണ് നമ്മുടെ ബുദ്ധിമുട്ട് ഒരു ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ ഉണ്ടാകില്ല ഒരു സംഖ്യാപരമായ പരിഹാരമുണ്ടാകും അത് കണ്ടെത്തുന്നത് സാധ്യമല്ലെന്ന് ഞാൻ പറയുന്നില്ല കഴിയുന്നത്ര അത് ഒഴിവാക്കാനും നമുക്ക് ഇതിനകം അറിയാവുന്നതും നമുക്ക് ഇതിനകം അറിയാവുന്നതും ഒരു ഏകതാനമായ ഗ്രീൻ ഫംഗ്ഷനാണെന്ന് ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ എനിക്ക് ഇപ്പോഴും അത് എങ്ങനെയെങ്കിലും ഉപയോഗിക്കാനാകുമോ അത് ശരിയാണെന്ന് കണക്കാക്കുന്നതിനുള്ള കൃത്യമായ മാർഗ്ഗം നേടാനാകുമോ എന്നതാണ് ചോദ്യം അതിനാൽ നമ്മൾ ഗ്രീൻ ഫംഗ്ഷൻ ഉപയോഗിക്കും പക്ഷേ അത് എങ്ങനെ നേടാം എന്നത് അൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനാൽ നമ്മൾ അതിലേക്ക് പോകും അതിനാൽ εr യഥാർത്ഥത്തിൽ V2 പരിധിയിലുള്ള സ്ഥലത്തിന്റെ ഒരു ഫംഗ്ഷനാണെന്ന് ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ നിലവിലെ പ്രശ്നം എങ്ങനെ വ്യത്യസ്തമാണ് അതിനാൽ V2 അതിനാൽ V2 നുള്ളിൽ ഇത് x y യുടെ ഫംഗ്ഷൻ ആയി വ്യത്യാസപ്പെടുന്നു അതിനാൽ ഇവിടെ എങ്ങനെ നമ്മുടെ സമീപനം ഉപയോഗിക്കുന്നത് തുടരും എന്ന് ഇപ്പോൾ എങ്ങനെ അടുക്കും അതിനാൽ നമുക്ക് ഇതിനകം അറിയാവുന്നത് ഉപയോഗിക്കുക അതിനാൽ നമുക്ക് ഇതിനകം അറിയാവുന്നത് തരംഗ സമവാക്യം ശരിയാണ് അതിനാൽ ഒരു വസ്തുവും ഇല്ലെങ്കിൽ ശരി എന്ന് പറയാം എനിക്ക് നിലവിലെ ഉറവിടം ഇവിടെയുണ്ട് ഇവിടെ ഒരു വസ്തുവും ഇല്ല അപ്പോൾ എന്റെ ഹെൽംഹോൾട്ട്സ് സമവാക്യം എന്തായിരിക്കും അതിനാൽ എനിക്ക് ഒരു ∇2Ei ഉണ്ടായിരിക്കും കാരണം ഫീൽഡ് ചിതറിക്കാൻ ഒന്നുമില്ല അതിനാൽ മൊത്തം ഫീൽഡ് ഉറവിടം നിർമ്മിച്ച സംഭവ ഫീൽഡ് മാത്രമാണ് തുടർന്ന് ഞാൻ എഴുതാം ∇2Ei k02Ei jωμJz ഈ Ei ന്റെ പ്രവർത്തനവും ആണ് ഞാൻ അത് ഇവിടെ എഴുതുന്നില്ല അതിനാൽ വസ്തുവിന്റെ അഭാവത്തിൽ ഇതാണ് നമ്മുടെ സമവാക്യം ഇപ്പോൾ ഞാൻ ഒബ്ജക്റ്റ് ചേർക്കുമ്പോൾ ഈ കേസിൽ ഒബ്ജക്റ്റ് ചേർക്കാം അത് V2 ആണ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതേ ഓപ്പറേറ്റർ സമാനമായി തുടരുന്നു എന്ന് ഞാൻ പറയും അതിനാൽ ∇2E k02εrE jωμJz മാധ്യമത്തിന്റെ പെർമിറ്റിവിറ്റി ഈ k പദത്തിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ ഇത് ആപേക്ഷിക പെർമിറ്റിവിറ്റി ഒരു വിധത്തിൽ വരുന്നു വലത് വശത്തിന്റെ കാര്യമോ ശരിയല്ല നിലവിലെ ഉറവിടം ഇപ്പോഴും ശരിയാണ് V2 ൽ ഇത് 0 ആണ് അതിനാൽ J പോലും r ന്റെ ഒരു ഫംഗ്ഷനാണ് V2 ൽ നിലവിലെ ഉറവിടം 0 ആണ് അതിനാൽ ഇത് വിലയിരുത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോഴെല്ലാം അപ്പോൾ r ന്റെ ഒരു മൂല്യം എടുക്കുക നമുക്ക് r V1 ൽ ആണെന്ന് പറയാം അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ ആപേക്ഷിക പെർമിറ്റിവിറ്റി 1 ആയിരിക്കും വാക്വത്തിന്റെ ആപേക്ഷിക പെർമിറ്റിവിറ്റി 1 ആണ് നിലവിലെ ഉറവിടം നിലവിലുണ്ട് V2 നുള്ളിലെ r എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ വിലയിരുത്തുന്നു 1 ൽ നിന്ന് വ്യത്യസ്തമാകാൻ എനിക്ക് ആപേക്ഷിക അനുമതി ഉണ്ടായിരിക്കും നിലവിലെ ഉറവിടം 0 അതിനാൽ രണ്ടും ഇപ്പോൾ r ന്റെ പ്രവർത്തനങ്ങളാണ് എന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇത് മേഖല 1 ന് സാധുതയുള്ളതാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല ഇത് മേഖല 2 ന് സാധുതയുള്ളതാണ് ഇത് ഒരു പൊതു സമവാക്യമാണ് അതിനാൽ സാധാരണഗതിയിൽ എനിക്ക് നിലവിലെ ഉറവിടം അറിയില്ല മാത്രമല്ല എവിടെയോ ശരിയായ ആന്റിനയിൽ കറന്റ് എങ്ങനെ ഒഴുകുന്നു എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിലവിലെ ഉറവിടം കുറയ്ക്കുന്നത് ഒഴിവാക്കുന്നതിന് ഈ രണ്ട് സമവാക്യങ്ങൾ ഉപയോഗിച്ച് എനിക്ക് എന്തുചെയ്യാനാകും അതിനാൽ ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്ക് എന്താണ് ലഭിക്കുക അതിനാൽ ∇2E − Ei k02εrE − k02Ei 0 അതിനാൽ ഇത് ഒരു സമവാക്യമാണ് അതിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് അതിന് സംഭവ ഫീൽഡ് ഉണ്ട് ഇതിന് ഒബ്ജക്റ്റ് വിവരങ്ങളുണ്ട് കൂടാതെ എനിക്ക് പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വേരിയബിളും ഉണ്ട് കാരണം അതിൽ എല്ലാം ഉണ്ട് ഈ നിലവിലെ ഉറവിടം ഞാൻ ഇല്ലാതാക്കി യഥാർത്ഥത്തിൽ നിലവിലെ ഉറവിടത്തിന്റെ സ്വാധീനം ഏത് പദത്തിലാണ് പ്രശ്നത്തിലേക്ക് ലയിച്ചത് നിലവിലെ സ്രോതസ്സിന്റെ സ്വാധീനം സംഭവമേഖലയിൽ പ്രത്യക്ഷപ്പെട്ടു അതിനാൽ നിലവിലെ ഉറവിടം പൂർണ്ണമായും നീക്കം ചെയ്തതല്ല ഇതാണ് നമുക്ക് ഉള്ള സമവാക്യം ഇവിടെ ഗ്രീൻ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് ഇതിനകം അറിയാവുന്നത് ഉപയോഗിച്ച് നമുക്ക് ഈ സമവാക്യം പരിഹരിക്കാമോ അതിനാൽ ഈ ഗ്രീൻ ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കുന്നതിന് എനിക്ക് ഫോമിന്റെ മറ്റൊരു സമവാക്യം ഉണ്ടായിരിക്കണം അതേ രൂപത്തിൽ ശരിയാണെങ്കിൽ ഇടത് വശം ഇവിടെ ഈ സമവാക്യം പോലെയാണോ സമവാക്യം 3 അതിനാൽ E − Ei ϕ ശരിയാണ് എന്നാൽ k02 നൊപ്പം വരുന്ന പദത്തിന്റെ രണ്ടാം പദത്തെ സംബന്ധിച്ചെന്ത് അത് ആ രൂപത്തിൽ ആണെങ്കിലും അത് ശരിയല്ല അതിനാൽ സമവാക്യം 3 പരിഹരിക്കാൻ എനിക്ക് ഈ സമവാക്യം 4 ഉടൻ ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷേ ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്നുണ്ടോ വിദ്യാർത്ഥി ഇല്ല ശരിയല്ല എനിക്ക് ചെയ്യേണ്ടത് ചില ലളിതമായ കൃത്രിമത്വം മാത്രമാണ്